ഹലോ സെക്യുർ സിസ്റ്റംസ് എഞ്ചിനീയറിംങ് ക്ലാസ്സിലേക്ക് സ്വാഗതം മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കാഷെ ടൈമിംഗ് ആക്രമണങ്ങൾ നോക്കുകയായിരുന്നു ആദ്യം കാഷെ കോവർട്ട് ചാനൽ നോക്കി പിന്നീടുള്ള വീഡിയോയിൽ നമ്മൾ ഫ്ലഷ് റീലോഡ് ആക്രമണങ്ങളെക്കുറിച്ചു നോക്കി ഈ ക്ലാസ്സിൽ കാഷെ collision ആക്രമണങ്ങൾ എന്നറിയപ്പെടുന്ന മറ്റൊരു കാഷെ ടൈമിംഗ് ആക്രമണത്തെക്കുറിച്ച് നമ്മൾ നോക്കും രണ്ട് തരം കാഷെ collision ആക്രമണങ്ങളുണ്ട് അവ external കാഷെ collision ആക്രമണങ്ങളും internal കാഷെ collision ആക്രമണങ്ങളുമാണ് external കാഷെ collision ആക്രമണങ്ങളെ പ്രൈം പ്രോബ് ആക്രമണങ്ങൾ എന്നറിയപ്പെടുന്നു അതേസമയം internal കാഷെ collision സമയബന്ധിത ആക്രമണങ്ങൾ എന്ന് വിളിക്കുന്നു അതിനാൽ ഈ ക്ലാസ്സിൽ ആദ്യം ഒരു പ്രൈം ആൻഡ് പ്രോബ് ആക്രമണത്തോടെ ആരംഭിക്കും തുടർന്ന് സമയബന്ധിതമായ ആക്രമണത്തെക്കുറിച്ച് നോക്കാം ഒരു പ്രൈം ആൻഡ് പ്രോബ് ആക്രമണത്തിൽ ഞങ്ങൾ പരിഗണിക്കുന്ന സാഹചര്യം ഇത് അല്ലെങ്കിൽ ഇതാണ് അതുമല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രത്യേക കോറിൽ പ്രവർത്തിക്കുന്ന ഒരു victim പ്രക്രിയയും മറ്റൊരു പ്രോസസർ കോറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പൈ പ്രോസസും ഉണ്ട് ഈ രണ്ടു പ്രോസസും ഒരേ കാഷെ മെമ്മറി പങ്കിടുന്നു അതിനാൽ ഈ പ്രത്യേക ഉദാഹരണത്തിൽ victim പ്രോസസ്സും സ്പൈ പ്രോസസും തമ്മിൽ പങ്കിട്ട അവസാന ലെവൽ കാഷെ മെമ്മറിയും നമുക്ക് ഉണ്ട് ഈ സജ്ജീകരണത്തിൽ ഈ രണ്ടു പ്രോസസും ഒരേ പ്രോസസ്സർ കോറിൽ പ്രവർത്തിക്കുന്നു ഈ പ്രത്യേക പ്രോസസ്സർ കോർ ഒരു symmetric മൾട്ടി ത്രെഡ് പ്രോസസർ കോർ ആണെന്നോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്റലിന്റെ നാമകരണം ഉപയോഗിക്കുമ്പോൾ ഈ പ്രോസസർ കോർ ഒരു ഹൈപ്പർ ത്രെഡ്ഡ് പ്രോസസർ കോർ ആണെന്നാണ് ഇവിടെയുള്ള അനുമാനം അതിനാൽ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ victim പ്രോസസും spy പ്രോസസും ഒരേസമയം പ്രവർത്തിക്കുകയും സാധാരണ എൽ 1 കാഷെ മെമ്മറി പങ്കിടുകയും ചെയ്യുന്നു നമ്മൾ മുമ്പ് കണ്ടതുപോലെ കാഷെ മെമ്മറികളെ ഈ പ്രത്യേക ഡയഗ്രം വളരെ abstract ആയി പ്രതിനിധീകരിക്കുന്നു ആ പ്രത്യേക കാഷെ മെമ്മറിയിലെ ഓരോ സെറ്റിനും അനുയോജ്യമായ വരികൾ ഇവിടെയുണ്ട് ഉദാഹരണത്തിന് നമുക്ക് സെറ്റ് 0 മുതൽ സെറ്റ് N വരെ എൻ കാഷെ സെറ്റുകളുണ്ട് ഓരോ സെറ്റിനും 4 വഴികളുണ്ട് 0 മുതൽ വഴി 3 വരെ അത് victim അല്ലെങ്കിൽ സ്പൈ പ്രോസസ് ആക്സസ് ചെയ്ത വിലാസത്തെ ആശ്രയിച്ചിരിക്കും അതിനാൽ victim പ്രോസസ്സിന്റെയും spy പ്രോസസ്സിന്റെയും ഡാറ്റയെ സംഭരിക്കാൻ ഒരു പ്രത്യേക സെറ്റിലെ ഒരു പ്രത്യേക കാഷെ ലൈൻ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഈ ക്ലാസ്സിൽ നാം കാണുന്നത് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഒരു പ്രൈം പ്രോബ് ആക്രമണത്തിൽ victim പ്രക്രിയയെക്കുറിച്ച് spy പ്രക്രിയയ്ക്ക് ചില വിവരങ്ങൾ നേടാൻ കഴിയും എന്നതാണ് ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം നടപ്പിലാക്കുന്ന victim പ്രക്രിയയിൽ നിന്ന് രഹസ്യ കീകൾ വീണ്ടെടുക്കുന്നതിന് ഈ ആക്രമണങ്ങൾ ഉപയോഗിക്കുന്നു പ്രൈം phase ഇതുപോലെയാണ് കാണപ്പെടുന്നത് സ്പൈ പ്രോസസ്സിൽ അനന്തമായ ലൂപ്പ് ഉണ്ടെങ്കിൽ ഓരോ കാഷെ സെറ്റിനും സ്പൈ പ്രോസസ്സ് ചില ലോഡ് നിർദ്ദേശങ്ങൾ സൃഷ്ടിക്കുന്നു അത് ആ പ്രത്യേക കാഷെ സെറ്റിന്റെ എല്ലായിടത്തും accessible ആണ് ഇത് ചെയ്യുമ്പോൾ സ്പൈ ഈ ലോഡ് നിർദ്ദേശങ്ങളുടെ ഒരു time കണക്കാക്കുന്നു ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത് തുടക്കത്തിൽ ഞങ്ങൾ ഒരു ക്ലോക്ക് ഫംഗ്ഷൻ അഭ്യർത്ഥിക്കുകയും ആരംഭ സമയം നേടുകയും തുടർന്ന് കാഷെ എല്ലാ വഴികളിലേക്കും പ്രവേശിച്ച് എല്ലാ സ്പൈ ഡാറ്റയും കാഷെയിലേക്ക് ലോഡ് ചെയ്തതിനുശേഷം ടൈമറിനെ വീണ്ടും വിളിക്കുകയും അവസാന സമയം നേടുകയും ചെയ്യുന്നു ഇപ്പോൾ ആക്സസ് സമയം ആരംഭ സമയം അവസാന സമയം ആണ് എല്ലാ കാഷെ സെറ്റുകളിലും ഇത് ചെയ്തുകഴിഞ്ഞാൽ ലൂപ്പിന്റെ അവസാനം ഉണ്ടാകുന്നത് മുഴുവൻ കാഷെയും സ്പൈ ഡാറ്റയിൽ നിറഞ്ഞിരിക്കുന്നു എന്നതാണ് spy process തുടർച്ചയായി ഇത് ചെയ്യുന്നു അതിന്റെ ഫലമായി കാഷെ മുഴുവൻ സ്പൈ ഡാറ്റയിൽ നിറയും അടുത്തതായി സംഭവിക്കുന്നത് spy process കുറച്ച് സമയത്തേക്ക് കാത്തിരിക്കുന്നു അടുത്തതായി സംഭവിക്കുന്നത് spy process victim process ന്റെ execution തുടങ്ങാൻ കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ എക്സിക്യൂഷൻ സമയത്ത് victim process ചില നിർദ്ദേശങ്ങൾ ആക്സസ് ചെയ്യാൻ തുടങ്ങും spy എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കാഷെ മെമ്മറിയിൽ ചില സെറ്റുകൾ സ്പൈ ഡാറ്റ നീക്കംചെയ്യുകയും victim ഡാറ്റ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും ചെയ്യും കാഷെ മെമ്മറി സാധാരണയായി എൽആർയു പോളിസി പോലുള്ള ചില മാറ്റിസ്ഥാപിക്കൽ നയം നടപ്പിലാക്കുകയും മാറ്റിസ്ഥാപിക്കുന്നതിനായി ഒരു പ്രത്യേക കാഷെ ലൈൻ തിരിച്ചറിയുകയും spy process ന്റെ ഡാറ്റ ഉപയോഗിച്ച് പ്രത്യേക കാഷെ ലൈൻ മാറ്റിസ്ഥാപിക്കുകയും ചെയ്യും Victim വീണ്ടും execute ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം കുറച്ച് സമയം കാത്തിരുന്ന ശേഷം victim probe phase ലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ probe phase ൽ വീണ്ടും ലൂപ്പ് നടപ്പിലാക്കുകയും victim ഓരോ കാഷെ സെറ്റിലും പ്രവേശിക്കാൻ തുടങ്ങുകയും ചെയ്യും probe phase ൽ victim ഓരോ കാഷെ സെറ്റിലൂടെയും പാഴ്സുചെയ്യുകയും ആ പ്രത്യേക സെറ്റിലുള്ള എല്ലാ കാഷെ ലൈനുകളും ആക്സസ് ചെയ്യുകയും ആ സമയത്ത് ഈ ആക്സസ്സുകൾ നടത്തുന്നതിന് ആവശ്യമായ സമയം കണക്കാക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ ഇത് നോക്കുകയും spy process കാണുന്നതെന്താണെന്ന് അനുമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ spy ഈ സെറ്റ് 0 ആക്സസ് ചെയ്യാൻ എടുക്കുന്ന സമയം കുറവാണ് എന്ന് കാണാം കാരണം സെറ്റ് 0 യുടെ ഉള്ളടക്കം എല്ലാ spy data യോടും യോജിക്കുന്നു അത് കാഷെ ഹിറ്റുകൾക്ക് കാരണമാവുകയും അതിന്റെ ഫലമായി സെറ്റ് 0 ക്കുള്ള ആക്സസ് സമയം കുറവായിരിക്കുകയും ചെയ്യും ഇപ്പോൾ സെറ്റ് 1 2 3 എൻ 2 എന്നിവയ്ക്കുള്ള ആക്സസ് സമയം ഉയർന്നതായിരിക്കും അതിന്റെ ഫലമായി സ്പൈ ഡാറ്റ നീക്കംചെയ്യുകയും പകരം victim ഡാറ്റ വയ്ക്കുകയും ചെയ്തതിനാൽ spy process ന് ചില കാഷെ മിസ്സുകൾ നേരിടേണ്ടിവരും 1 2 3 N 2 എന്നീ സെറ്റുകളിൽ സ്പൈ പ്രോസസ്സ് നടത്തിയ കൂടുതൽ കാഷെ മിസ്സുകൾ probe phase ൽ ഉണ്ടാകും ഈ രീതിയിൽ victim ഡാറ്റയുള്ള കാഷെ സെറ്റുകൾ തിരിച്ചറിയാൻ spy പ്രക്രിയയ്ക്ക് കഴിയും അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ victim ആക്സസ് ചെയ്ത കാഷെ സെറ്റുകൾ തിരിച്ചറിയാൻ spy പ്രക്രിയയ്ക്ക് കഴിയും Probe phase ന്റെ ഫലമായി കാഷെയിൽ ഉണ്ടായിരുന്ന victim കളുടെ ഡാറ്റ പുറത്താക്കുകയും വീണ്ടും സ്പൈ പ്രോസസ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നു നമ്മൾ ഇവിടെ കാണുന്നതുപോലെ ഈ പ്രൈം പ്രോബ് ഘട്ടം വീണ്ടും വീണ്ടും തുടരുന്നു ഈ പ്രത്യേക പ്ലോട്ട് probe phase നായി ലഭിച്ച സമയം കാണിക്കുന്നു ഇവിടെയുള്ള ഓരോ വരിയും സ്പൈ പ്രക്രിയയിലെ ഒരു പ്രത്യേക ആവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒപ്പം ഓരോ നിരയും ഒരു പ്രത്യേക സെറ്റിനെ കാണിക്കുന്നു ഉദാഹരണത്തിന് ഇത് 64 കാഷെ സെറ്റുകളുള്ള എൽ 1 കാഷെ ഒരു ഇന്റൽ ഐ 7 മെഷീനിൽ പ്രവർത്തിപ്പിച്ചു ഇവിടെയുള്ള ഓരോ നിരയും ഒരു പ്രത്യേക കാഷെ സെറ്റിനെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ നിറം കുറഞ്ഞ ഭാഗം എക്സിക്യൂഷൻ സമയം കുറവാണെന്ന് സൂചിപ്പിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ പ്രത്യേക ആവർത്തനത്തിൽ spy പ്രക്രിയ കാഷെ ഹിറ്റുകൾ നിരീക്ഷിച്ചുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു മറുവശത്ത് ഇവിടെയുള്ളതുപോലുള്ള ഇരുണ്ട നിറം എക്സിക്യൂഷൻ സമയം കൂടുതലാണെന്ന് സൂചിപ്പിക്കും ഈ സാഹചര്യത്തിൽ spy പ്രക്രിയയ്ക്ക് cache miss സംഭവിച്ചിരിക്കാം കാഷെ മിസ്സുകൾ എല്ലായ്പ്പോഴും ഉണ്ടാവുന്ന ചില കാഷെ സെറ്റുകൾ ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമായി കാണാൻ കഴിയും ഉദാഹരണത്തിന് ഈ പ്രത്യേക പ്ലോട്ട് നോക്കുമ്പോൾ ഉയർന്ന എക്സിക്യൂഷൻ സമയം ചെലവഴിച്ച സെറ്റുകൾ നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ കഴിയും ഉദാഹരണത്തിന് ഇതുപോലുള്ള ഇരുണ്ട കാഷെ സെറ്റുകൾക്ക് ഉയർന്ന എക്സിക്യൂഷൻ സമയം ഉണ്ട് ഇത് സ്പൈ പ്രോസസ്സിന് ധാരാളം കാഷെ മിസ്സുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നു മറുവശത്ത് ഈ കാഷെ സെറ്റ് പോലുള്ള നിറം കുറഞ്ഞ ഷേഡുകൾക്ക് ധാരാളം കാഷെ ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അതിനാൽ അത് നിറം കുറഞ്ഞതാണ് ഈ പ്രത്യേക രീതിയിൽ കാഷെ മെമ്മറികൾ എങ്ങനെ ആക്സസ് ചെയ്തുവെന്ന് കണ്ടെത്തുന്നതിലൂടെ മറ്റ് പ്രോസസ്സ് എന്താണ് ചെയ്യുന്നതെന്ന് ഒരു സൂചന ലഭിക്കും മറ്റൊരു ഉദാഹരണം നോക്കാം ഈ പ്രത്യേക ഘട്ടത്തിൽ ഈ പ്രദേശങ്ങൾ ഗണ്യമായി ഇരുണ്ടതാണ് ഈ പ്രദേശങ്ങൾ അർത്ഥമാക്കുന്നത് ഇവിടെ ചില പ്രവർത്തനങ്ങളുണ്ടെന്നാണ് ഉദാഹരണത്തിന് മറ്റൊരു പ്രോസസ്സിനു അവസരം ലഭിക്കുക അല്ലെങ്കിൽ ധാരാളം മെമ്മറി പ്രവർത്തനങ്ങൾ നിർവ്വഹിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക മുതലായവ അതിനാൽ ഇത് spy പ്രക്രിയയെ ബാധിച്ചതായി ഞങ്ങൾ കാണുന്നു ഒരു പ്രത്യേക ഡീക്രിപ്ഷൻ അൽഗോരിതം രഹസ്യ കീ വീണ്ടെടുക്കുന്നതിന് ഈ പ്രൈം ആൻഡ് പ്രോബ് സ്കീം എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇപ്പോൾ ഞങ്ങൾ കാണും ഇതുപോലെയുള്ള ഒരു ഫംഗ്ഷൻ നമുക്കുണ്ടെന്ന് കരുതുക ഈ ഫംഗ്ഷനെ RecvDecrypt എന്ന് വിളിക്കുന്നു നമ്മൾ ഒരു പ്രത്യേക സോക്കറ്റ് എടുക്കുകയും ഇവിടെ ഒരു രഹസ്യ കീ 12 ആയി നിർവചിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ സോക്കറ്റിൽ നിന്നുള്ള സൈഫർടെക്സ്റ്റ് വായിക്കുകയും ഈ സൈഫർടെക്സ്റ്റ് ct യിൽ characters ആയി സംഭരിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ ഇവിടെ വ്യക്തമാക്കിയിട്ടില്ലാത്ത ചില പ്രതീകങ്ങൾ അടങ്ങിയ ഈ പ്രത്യേക array ൽ ഒരു lookup നടത്തുന്നു കീ എക്സ് അല്ലെങ്കിൽ സിഫർടെക്സ്റ്റ് ആയ ഒരു index നെ അടിസ്ഥാനമാക്കിയാണ് look up ഈ പ്രവർത്തനം പ്ലെയിൻടെക്സ്റ്റ് ലഭിക്കുന്നതിന് ഉപയോഗിക്കുന്നു തുടർന്ന് അത് തിരികെ നൽകും ഇപ്പോൾ ഇത് ഒരു toy ഡീക്രിപ്ഷൻ അൽഗോരിതം മാത്രമാണ് ക്രിപ്റ്റോഗ്രാഫിക് സ്കീമുകൾ തകർക്കാൻ പ്രൈമും പ്രോബും എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിക്കാൻ നിർമ്മിച്ചതാണ് ഇവിടെ നിരീക്ഷിക്കേണ്ട പ്രധാന കാര്യം ഈ പ്രത്യേക array യിലേക്കുള്ള ഈ look up കീയെ ആശ്രയിച്ചുള്ള ഒരു വിലാസ സ്ഥാനത്താണ് എന്നതാണ് അതിനാൽ ഉദാഹരണത്തിന് സൈഫർടെക്സ്റ്റിന്റെ മൂല്യം ആക്രമണകാരിക്ക് അറിയാമെന്ന് കരുതുക ഈ പ്രത്യേക lookup ന്റെ index കീയുടെ മൂല്യത്തെ ആശ്രയിച്ചിരിക്കും ഉദാഹരണത്തിന് സിഫർടെക്സ്റ്റ് 0xFF ആണെന്നു കരുതുക കീ 0 ആണെങ്കിൽ lookup 0xFF ലൊക്കേഷനിലേക്കാണ് മറുവശത്ത് കീ 0xAA ആണെങ്കിൽ 0x55 എന്ന സ്ഥാനത്തേക്കാണ് lookup ഉണ്ടാവുക അതിനാൽ ഇവിടെയുള്ള ഈ lookup പ്രവർത്തനം അടിസ്ഥാനപരമായി ഒരു മെമ്മറി ആക്സസ് ആണെന്ന് നിങ്ങൾ കാണുന്നു ഈ മെമ്മറി ആക്സസ് കാഷെ മെമ്മറിയിൽ മറ്റൊരു ഡാറ്റ ലോഡുചെയ്യാൻ കാരണമാവും ഇപ്പോൾ ഞങ്ങൾ ഈ പ്രത്യേക പ്രക്രിയയും victim പ്രക്രിയയും run ചെയ്യുന്നു എന്ന് കരുതുക കാഷെയിലെ മറ്റു സെറ്റുകളിലേക്ക് മെമ്മറി ആക്സസ് ചെയ്യുന്നതിന് എടുക്കുന്ന സമയം സ്കാൻ ചെയ്തുകൊണ്ട് തുടർച്ചയായി പ്രൈം പ്രോബ് എന്നിവ പ്രവർത്തിപ്പിക്കുന്ന ഒരു സ്പൈ പ്രോസസും ഇതിനോട് ഒപ്പം run ചെയ്യുന്നു കീ 0xAA ആണെങ്കിൽ സൈഫർടെക്സ്റ്റ് 0xFF ആണെന്ന് ആക്രമണകാരിക്ക് അറിയാം ഈ ലുക്കപ്പ് പ്ലസ് 0x55 ന് അനുസരിച്ച് സ്പൈ പ്രോസസിലെ കാഷെ മിസ്സുകളുടെ എണ്ണം വർദ്ധിക്കും Spy പ്രക്രിയയിലെ iteration ലെ എക്സിക്യൂഷൻ സമയത്തിലെ വർദ്ധനവ് ഇത് നിരീക്ഷിക്കും victim പ്രോസസ്സ് മെമ്മറിയുടെ ആ ഭാഗത്തേക്ക് പ്രവേശിച്ചുവെന്നും അതിൽ നിന്ന് key 0xAA അല്ലെങ്കിൽ 0xAA ന് വളരെ അടുത്തുള്ള ഒന്നാണെന്നും അനുമാനിക്കാൻ ആക്രമണകാരിക്ക് കഴിയും ക്രിപ്റ്റോഗ്രഫിക്ക് പുറമേ പ്രൈം പ്രോബ് തരം ആക്രമണങ്ങൾ നിരവധി വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾക്കായി ഉപയോഗിക്കാം കീബോർഡ് സ്നിഫിംഗ് ആണ് മറ്റൊരു പ്രശസ്ത ആപ്ലിക്കേഷൻ ഈ പ്രത്യേക പ്രക്രിയ victim പ്രക്രിയയാണ് പ്രൈം പ്രോബ് ഓപ്പറേഷനുകൾ നടത്തുന്ന attck പ്രക്രിയയാണ് മറ്റൊരു പ്രോസസ്സ് ഒരു കീസ്ട്രോക്ക് ഉണ്ടാകുമ്പോഴെല്ലാം ഒരു ഉപയോക്താവ് ഒരു കീ അമർത്തുമ്പോഴെല്ലാംഅതായത് തന്റെ പാസ്വേഡുമായി ബന്ധപ്പെട്ട് ഒരു കീ അമർത്തുകയാണെന്ന് നമുക്ക് പറയാം ഓരോ കീസ്ട്രോക്കും ഒരു interrupt ഉണ്ടാക്കുന്നു ഇത് കേർണൽ മോഡിലേക്ക് മാറുന്നതിന് കാരണമാകുന്നുതുടർന്ന് ഒരു ISR എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു അതിനാൽ ഓരോ കീസ്ട്രോക്കും ധാരാളം എക്സിക്യൂഷൻ സംഭവിക്കാൻ കാരണമാകുന്നു ഒരു കീസ്ട്രോക്ക് അമർത്തുമ്പോഴെല്ലാം അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഇരയായ ആപ്ലിക്കേഷനിലും വ്യത്യസ്തങ്ങളായ നിരവധി ഫംഗ്ഷനുകൾക്ക് കാരണമാകുന്നു തൽഫലമായി പ്രൈം പ്രോബ് എന്നിവ പ്രവർത്തിപ്പിക്കുന്ന ധാരാളം സ്പൈ ഡാറ്റ കാഷെയിൽ നിന്ന് പുറത്താക്കേണ്ടി വരും അതിനാൽ കീബോർഡിലെ കീകൾ അമർത്തിയ തൽക്ഷണം തന്നെ അത് തിരിച്ചറിയാൻ ആക്രമണകാരിക്ക് കഴിയും അടുത്തിടെ publish ചെയ്ത ഒരു പേപ്പറിൽ നിന്നുള്ള പ്ലോട്ടാണിത് ഒരു പ്രത്യേക സമയത്തെ ക്ലോക്ക് സൈക്കിളുകളുടെ കാലതാമസമാണ് ഞങ്ങൾ ഇവിടെ കാണുന്നത് കീകൾ അമർത്തിയാൽ പ്രൈം പ്രോബ് ആപ്ലിക്കേഷൻ കാണുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് എക്സിക്യൂഷൻ സമയത്തിൽ വർദ്ധനവുണ്ടെന്നാണ് ഉദാഹരണത്തിന് കീകളൊന്നും അമർത്താത്തപ്പോൾ സ്പൈ പ്രോസസ് കണക്കാക്കുന്ന എക്സിക്യൂഷൻ സമയം കുറവാണ് ഒരു പ്രത്യേക കീ അമർത്തുമ്പോൾ ഈ സന്ദർഭങ്ങളിൽ നിങ്ങൾ കാണുന്നതുപോലെ എക്സിക്യൂഷൻ സമയത്തിൽ വർദ്ധനവ് കാണാം കീ അമർത്തിയിട്ടില്ലാത്ത കുറച്ച് സമയത്തിന് ശേഷവും spy എക്സിക്യൂഷൻ സമയത്തിൽ വർദ്ധനവ് കാണുന്നില്ല കീകളൊന്നും അമർത്തിയിട്ടില്ലെങ്കിലും എക്സിക്യൂഷൻ സമയത്തിന്റെ വർദ്ധനവ് കാണിക്കുന്ന നിരവധി പിശകുകൾ തീർച്ചയായും ഇവിടെയുണ്ട് പ്രൈം പ്രോബ് ആക്രമണം മറ്റ് പല use case കളിലും ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഗൂഗിൾ ക്രോം ഫയർഫോക്സ് പോലുള്ള വെബ് ബ്രൌസറുകളിൽ ജാവാസ്ക്രിപ്റ്റ് നേറ്റീവ് ക്ലയന്റ് വെബ് അസംബ്ലി എന്നിവ ആക്രമിക്കാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രത്യേക സ്ലൈഡ് ഈ പേപ്പറിൽ നിന്ന് എടുത്തതാണ് അത് ഡ്രൈവ് ബൈ കാഷെ എന്നറിയപ്പെടുന്നു കൂടാതെ ഒരു പ്രൈം പ്രോബ് ആക്രമണം ഉപയോഗിച്ച് Gmail രഹസ്യ കീ എങ്ങനെ വീണ്ടെടുക്കാമെന്ന് ഇത് കാണിച്ചുതന്നു സാധാരണ സംഭവിക്കുന്നത് എന്തെന്നാൽ ഉപയോക്താവിനെ ഒരു പ്രത്യേക ലിങ്കിലേക്ക് പോയി ഒരു പ്രത്യേക പരസ്യ വെബ്സൈറ്റിൽ ക്ലിക്കുചെയ്യാൻ നിർബന്ധിക്കുകയും ഈ വെബ്സൈറ്റ് ഒരു പരസ്യ ടാബ് തുറക്കുകയും ഒരു പരസ്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും എന്നാൽ പശ്ചാത്തലത്തിൽ അത് പ്രൈം ആൻഡ് പ്രോബ് ആക്രമണം നടത്തും പ്രൈമും പ്രോബും എൻക്രിപ്ഷനോ ഡീക്രിപ്ഷനോ ഉള്ളപ്പോഴെല്ലാം കാഷെ മെമ്മറിയിലെ പ്രവർത്തനങ്ങൾ അളക്കുകയും രഹസ്യ വിവരങ്ങൾ അനുമാനിക്കാൻ ആ സമയം ഉപയോഗിക്കുകയും ചെയ്യും പ്രൈം ആൻഡ് പ്രോബ് ആക്രമണത്തിന്റെ മറ്റൊരു പ്രസിദ്ധമായ ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് ഫിംഗർപ്രിന്റിംഗിനായിരുന്നു അവിടെ ഏത് വെബ്സൈറ്റുകളാണ് ബ്രൌസുചെയ്യുന്നതെന്ന് പ്രൈം ആൻഡ് പ്രോബ് അപ്ലിക്കേഷന് തിരിച്ചറിയാൻ കഴിയും പ്രൈം പ്രോബ് ആക്രമണം എന്നിവ ഉപയോഗിച്ച് ക്രോസ് വെർച്വൽ മെഷീൻ ആക്രമണങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് 2009 ൽ റിസ്റ്റൻപാർട്ട് ഈ പ്രത്യേക പ്രബന്ധത്തിൽ ആദ്യമായി അവതരിപ്പിച്ചു വ്യത്യസ്ത വെർച്വൽ മെഷീനുകളുള്ള ഒരു ക്ലൌഡ് എൻവയോൺമെന്റാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്നാൽ അടിസ്ഥാന ഹാർഡ്വെയർ സമാനമാണ് ഉദാഹരണത്തിന് ഇവിടെയുള്ള ഈ figure ൽ ഒരു ആക്രമണകാരി victim പ്രോസസ്സിന് സമാനമായ കാഷെ മെമ്മറി പങ്കിടുന്നു ആക്രമണകാരി ഒരു പ്രൈം ആൻഡ് പ്രോബ് ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കുകയും victim പ്രോസസ്സ് കാഷെ മെമ്മറി പ്രവർത്തനം നിരീക്ഷിക്കുകയും ചെയ്യുന്നു ഇതിൽ നിന്ന് ക്രിപ്റ്റോഗ്രാഫിക് കീകൾ പോലുള്ള രഹസ്യ വിവരങ്ങൾ തിരിച്ചറിയാൻ കഴിയും ഏത് character ആണ് അമർത്തിയതെന്ന് അത് തിരിച്ചറിയും അല്ലെങ്കിൽ അതിന് കീസ്ട്രോക്കുകൾ ഒഴിവാക്കാനും മറ്റും കഴിയും Shared DRAM ഉപയോഗിച്ച് അടുത്തിടെ സമാനമായ ആക്രമണങ്ങൾ ഉണ്ടായി അത്തരമൊരു സാഹചര്യത്തിൽ ഇരയും ആക്രമണകാരിയും ഒരേ എൽഎൽസി പങ്കിടേണ്ടതില്ല പക്ഷേ ഒരു പൊതു DRAM ആയിരിക്കും ഇപ്പോൾ ഞങ്ങൾ internal collision ആക്രമണങ്ങളെ കുറിച്ചു നോക്കുന്നു അത് സമയബന്ധിത ആക്രമണങ്ങൾ എന്ന് ശരിയായി അറിയപ്പെടുന്നു ഇവിടെ സാഹചര്യം വളരെ വ്യത്യസ്തമായി കാണപ്പെടുന്നു ഇവിടെ സംഭവിക്കുന്നത് ഇരയും ആക്രമണകാരിയും ഒരേ കമ്പ്യൂട്ടിംഗ് ഉറവിടം പങ്കിടണമെന്നില്ല അല്ലെങ്കിൽ ഒരേ കാഷെ മെമ്മറി പങ്കിടണമെന്നില്ല internal collision ആക്രമണങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ നോക്കാം ഇവ സമയബന്ധിത ആക്രമണങ്ങൾ എന്ന് ശരിയായി അറിയപ്പെടുന്നു അത്തരമൊരു സാഹചര്യത്തിൽഒരു ആക്രമണകാരിക്ക് ഒരു victim പ്രോസസ്സിനെ invoke ചെയ്യാൻ കഴിയും ഒപ്പം victim ഒരു പ്രതികരണം നൽകാൻ എടുക്കുന്ന സമയം അളക്കാനും കഴിയും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആക്രമണകാരി victim പ്രക്രിയയിലേക്ക് ഒരു അഭ്യർത്ഥന അയയ്ക്കും അത് തികച്ചും വ്യത്യസ്തമായ ഒരു മെഷീനിലായിരിക്കാം തുടർന്ന് പ്രതികരണം ലഭിക്കുന്നതിനുള്ള സമയം ഇത് അളക്കുന്നു ആക്രമണകാരിയുടെ ഭാഗത്തു ഈ എക്സിക്യൂഷൻ സമയത്തിലെ വ്യത്യാസങ്ങൾ victim നെക്കുറിച്ചുള്ള ചില തന്ത്രപ്രധാനമായ വിവരങ്ങൾ നേടുന്നതിന് ഉപയോഗിക്കുന്നു ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം തകർക്കുന്നതിന് time driven attackes വളരെ പ്രസിദ്ധമാണ് മാത്രമല്ല ഈ സ്കീമിന്റെ വളരെ ലളിതമായ ഒരു ഉദാഹരണം നമ്മൾ ഇപ്പോൾ കാണും നമുക്ക് സൈഫറിന്റെ ഒരു ചെറിയ ഭാഗം ഇതുപോലെയാണെന്ന് നമുക്ക് പറയാം നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് P0 ഉം പ്ലെയിൻ ടെക്സ്റ്റ് P4 ഉം ഉണ്ട് അത് സൈഫറിലേക്കുള്ള ഇൻപുട്ടാണ് ഇപ്പോൾ ഈ ഇൻപുട്ടുകൾ ഓരോന്നും ഒരു ബൈറ്റ് ആണെന്നു പറയാം ഇവ യഥാക്രമം K0 K4 കീകൾ ഉപയോഗിച്ച് xor ചെയ്യുന്നു അങ്ങനെ നമുക്ക് ഒരു വശത്ത് P0 XOR K0 ഉം മറുവശത്ത് P4 XOR K4 ഉം ലഭിക്കും ഇപ്പോൾ ഈ P0 XOR K0 P4 XOR K4 എന്നിവ ഒരു പട്ടികയിലേക്ക് index ചെയ്യാൻ ഉപയോഗിക്കുന്നു അതിനാൽ ഈ പ്രത്യേക index നെ അടിസ്ഥാനമാക്കി ഈ പട്ടികയിൽ ഒരു lookup ഉണ്ട് ഈ പ്രത്യേക പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഒന്നാമതായി ഇവിടെ ഒരു ആക്രമണകാരി ഉണ്ട് ആക്രമണകാരിക്ക് ആവശ്യാനുസരണം P0 P4 എന്നിവ തിരഞ്ഞെടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുക അതിനാൽ ആക്രമണകാരി ആക്രമണത്തിനായി P0 P4 തിരഞ്ഞെടുക്കുകയും ഒരു എൻക്രിപ്ഷൻ സംഭവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എൻക്രിപ്ഷന്റെ സമയത്ത് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നു തുടർന്ന് ആക്രമണകാരി ഈ മുഴുവൻ എൻക്രിപ്ഷനുള്ള സമയവും അളക്കുന്നു K0 K4 എന്നിവയെ ആശ്രയിച്ച് ഈ execution time എങ്ങനെ വ്യത്യാസപ്പെടാമെന്ന് ഇപ്പോൾ നമ്മൾ കാണും കാഷെ clean ആണെന്നു ആദ്യം നമുക്ക് അനുമാനിക്കാം കാഷെയുടെ ഒരു ഭാഗത്തും ഈ പട്ടിക വിവരങ്ങളൊന്നും അടങ്ങിയിട്ടില്ല അതിനാൽ P0 XOR K0 എന്ന സ്ഥലത്തെ ആദ്യ ആക്സസ് സമയത്ത് കാഷെ miss ഉണ്ടാവുകയും ഒരു ബ്ലോക്ക് മെമ്മറി കാഷെയിലേക്ക് ലോഡ് ചെയ്യുകയും ചെയ്യും P4 XOR K4 index ലെ രണ്ടാമത്തെ ആക്സസ് ഒരു കാഷെ ഹിറ്റ് അല്ലെങ്കിൽ കാഷെ miss ആവാം P4 XOR K4 index കൃത്യമായി കണ്ടെത്തിയാലോ P0 XOR K0 ക്ക് വളരെ അടുത്തായിരിക്കുമ്പോഴോ ഒരു കാഷെ ഹിറ്റ് സംഭവിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഈ രണ്ടാമത്തെ ആക്സസ് ആദ്യ ആക്സസ് തന്നെയോ അല്ലെങ്കിൽ അതിനു അടുത്തുള്ള ഏതെങ്കിലും location ആണെന്നു ഇത് സൂചിപ്പിക്കും ഈ ഡാറ്റ ഇതിനകം കാഷെയിൽ ഉള്ളതിനാൽ നമ്മൾ ഒരു കാഷെ ഹിറ്റ് നേടുകയും ഈ രണ്ടാമത്തെ ആക്സസ്സിന്റെ execution time വളരെ ചെറുതായിരിക്കുകയും ചെയ്യും എന്നാൽ P0 XOR K0 P4 XOR K4 ന് തുല്യമല്ലെങ്കിൽ രണ്ടാമത്തെ ആക്സസും കാഷെ miss ആയിരിക്കും രണ്ടാമത്തെ ആക്സസിനും ആ പ്രത്യേക കാഷെയിലേക്ക് ഒരു മെമ്മറി ബ്ലോക്ക് ലോഡുചെയ്യേണ്ടിവരും എക്സിക്യൂഷൻ സമയം മുഴുവൻ വിലയിരുത്തുന്നതിന് നമുക്ക് ഒന്നുകിൽ ഒരു കാഷെ മിസും ഒരു കാഷെ ഹിറ്റും അല്ലെങ്കിൽ രണ്ട് കാഷെ മിസ്സുകളും ലഭിക്കുന്നു അതിനാൽ P0 XOR K0 P4 XOR K4 എന്നിവയുടെ value ആശ്രയിച്ച് ഈ പ്രത്യേക സൈഫറിന്റെ execution time വ്യത്യാസപ്പെടും ഈ വ്യതിയാനത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഈ രഹസ്യ കീകളെക്കുറിച്ച് ചില വിവരങ്ങൾ നേടാൻ കഴിയും പ്രത്യേകിച്ചും ഞങ്ങൾക്ക് ഒരു കാഷെ ഹിറ്റ് ഉണ്ടെങ്കിൽ P0 XOR K0 P4 XOR K4 ന് തുല്യമാണെന്ന് പറയാം നമുക്ക് ലഭിച്ച പദങ്ങൾ പുനക്രമീകരിക്കുകയാണെങ്കിൽ K0 XOR K4 P0 XOR P4 ന് തുല്യമാണ് ഇപ്പോൾ ആക്രമണകാരിക്ക് P0 XOR P4 അറിയാമെന്നതിനാൽ K0 XOR K4 ന്റെ XOR അവനറിയാം അപ്പോൾ ഇത് ആക്രമണകാരിയെ എങ്ങനെ സഹായിക്കും ഓരോ കീയും K0 K4 എന്നിവ 8 ബിറ്റുകളാണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ ഈ പ്രത്യേക ആക്രമണം പ്രവർത്തിപ്പിക്കുന്നതിനോ പ്രവർത്തിപ്പിക്കുന്നതിനോ മുമ്പ് ആക്രമണകാരിയുടെ അനിശ്ചിതത്വം 8 പ്ലസ് 8 ആണ് അതായത് 16 ബിറ്റുകൾ ആക്രമണകാരി ഈ കാഷെ ഹിറ്റ് തിരിച്ചറിയുകയും ഇതുപോലുള്ള ഒരു ബന്ധം നേടുകയും ചെയ്താൽ uncertainity 16 ബിറ്റുകളിൽ നിന്ന് 8 ബിറ്റുകളായി കുറയുന്നു ആക്രമണകാരി അവയിലേതെങ്കിലും തിരിച്ചറിയുന്നു എന്നതാണ് ഇപ്പോൾ വേണ്ടത് അവൻ K0 നെ തിരിച്ചറിയുന്നുവെന്നും ആ K0 ഉപയോഗിക്കുന്നതിലൂടെ K4 എന്താണ് എന്നു എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുമെന്നും നമുക്ക് പറയാം അതുപോലെ ഒരു കാഷെ മിസ് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ബന്ധം ലഭിക്കുന്നു അതിനർത്ഥം P0 XOR K0 P4 XOR K4 ന് തുല്യമല്ല എന്നാണ് അതിനർത്ഥം ഈ ആക്സസ്സിൽ ഇത് ആക്സസ് ചെയ്ത index ഉം ഈ ആക്സസും തുല്യമല്ലെന്നും അതിനാൽ K0 XOR K4 P0 XOR P4 ന് തുല്യമല്ല എന്നതാണ് ഇത് ഒരു toy ഉദാഹരണമാണ് അത്തരമൊരു ഉദാഹരണം ഒരു പൂർണ്ണ സൈഫറിലേക്ക് വ്യാപിപ്പിക്കാം ഒരു AES സിഫർ പോലുള്ള ഒരു പൂർണ്ണ സൈഫറിൽ ഈ മുഴുവൻ ബ്ലോക്ക് സൈഫറിൻറെയും വളരെ ചെറിയ ഭാഗത്തിന് മുമ്പ് കണ്ടതുപോലെ ഒരു ഘടനയുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ എഇഎസ് പരിഗണിക്കുകയാണെങ്കിൽ അതിൽ 16 ബൈറ്റ് ഇൻപുട്ട് അടങ്ങിയിരിക്കുന്നു അത് നിങ്ങൾക്ക് 16 ബൈറ്റുകൾ output നൽകും എഇഎസ് ബ്ലോക്ക് സിഫറിനുള്ളിൽ യഥാർത്ഥത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിൽ യഥാർത്ഥത്തിൽ നമുക്ക് താൽപ്പര്യമുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലെയാണ് കാണപ്പെടുന്നത് മാത്രമല്ല ഇത് മുഴുവൻ സൈഫറിൻറെയും വളരെ ചെറിയ ഘടകമാണ് ഞങ്ങൾ കണ്ട ആക്രമണം ഒരു സമ്പൂർണ്ണ ബ്ലോക്ക് സൈഫറിലേക്ക് നീട്ടുന്ന രീതി ഇപ്രകാരമാണ് നമ്മൾ P0 സ്ഥിരമായി നിലനിർത്തുകയും P4 ന്റെ values മാറ്റുകയും ചെയ്യുന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ K0 0 ആയിട്ടും K4 50 ആയും എടുക്കുക ഇത് നമ്മുടെ രഹസ്യ വിവരമാണെന്ന് കരുതുക ഇപ്പോൾ നമ്മൾ P0 ന്റെ മൂല്യം സ്ഥിരമായി നിലനിർത്തുന്നു കൂടാതെ P4 ന്റെ ഓരോ വ്യത്യസ്ത മൂല്യത്തിനും ശേഷിക്കുന്ന ഇൻപുട്ടുകൾ ക്രമരഹിതമായി മാറ്റുന്നു P4 ന്റെ ഒരു നിർദ്ദിഷ്ട മൂല്യത്തിനായി ഈ ഡാറ്റയുടെ 216 വ്യത്യസ്ത values ഉപയോഗിച്ചു മാറ്റുന്നുവെന്ന് കരുതുക എഇഎസ് പോലുള്ള സൈഫറിനു രഹസ്യ കീ ഉപയോഗിച്ച് ആ പ്രത്യേക പ്ലെയിൻടെക്സ്റ്റ് എൻക്രിപ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ എക്സിക്യൂഷൻ സമയം ഞങ്ങൾ കണക്കാക്കുന്നു ഇത് ചെയ്തുകഴിഞ്ഞാൽ P4 ന്റെ ഓരോ മൂല്യത്തിനും വേണ്ടി വന്ന ശരാശരി സമയം കണ്ടെത്താം ഉദാഹരണത്തിന് P4 ന്റെ 16 വ്യത്യസ്ത മൂല്യങ്ങൾ 00 10 20 30 മുതൽ ആരംഭിക്കുന്നു ഇവയെല്ലാം ഹെക്സാഡെസിമൽ values ആണ് അത് F0 ൽ അവസാനിക്കും P4 ന്റെ ഓരോ മൂല്യത്തിനും മറ്റ് ഇൻപുട്ട് മൂല്യങ്ങളെല്ലാം ക്രമരഹിതമായി വ്യത്യാസപ്പെടുമ്പോൾ ലഭിക്കുന്ന ശരാശരി സമയം ഞങ്ങൾ കണക്കാക്കും ഇത് 216 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ ആവർത്തിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കുന്നത് P4 ന്റെ മൂല്യം 50 ആകുമ്പോൾ ഞങ്ങൾ ശരാശരിയിൽ നിന്ന് ഏറ്റവും ഉയർന്ന വ്യതിയാനം നേടുന്നു ആ സമയത്തു ശരാശരി 2943 57 ആണ് കൂടാതെ P4 ന്റെ മൂല്യം 50 ആകുമ്പോൾ ഈ പ്രത്യേക ശരാശരിയിൽ നിന്നുള്ള പരമാവധി വ്യതിയാനം ലഭിക്കും ശരാശരി വ്യത്യാസത്തിന്റെ absolute value പരിഗണിക്കുക ഇത് 6 3 ആയിരിക്കണം ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് P0 നമ്മൾ 0 ആയി സജ്ജീകരിച്ചിരിക്കുന്നു P4 നമുക്ക് 50 കിട്ടി അതിനാൽ P0 XOR P4 50 ന് തുല്യമാണ് അതിനാൽ K0 XOR K4 50 ന് തുല്യമാണെന്ന് നമുക്ക് അനുമാനിക്കാം ഈ കീകളുടെ മൂല്യങ്ങളിലേക്ക് തിരികെ പോയാൽ നമുക്ക് K0 ഉം K4 50 ഉം ആണ് അതിനാൽ ഇത് നമുക്ക് കിട്ടിയ result മായി പൊരുത്തപ്പെടുന്നു ഈ രീതിയിൽ ഞങ്ങൾ കാഷെ collision attacks കണ്ടു Victim പ്രോസസ്സിന്റെ അതേ സിസ്റ്റത്തിൽ തന്നെ പ്രവർത്തിപ്പിക്കാൻ ഒരു സ്പൈ പ്രോസസ്സ് ആവശ്യമുള്ള external collision attacks നമ്മൾ പരിശോധിച്ചു ഇത് Victim പ്രോസസ്സിന്റെ അതേ കാഷെ മെമ്മറിയും പങ്കിടുന്നു Internal collision ആക്രമണങ്ങളും ഞങ്ങൾ പരിശോധിച്ചു അവിടെ ഒരു ആക്രമണകാരി ഒരു spy process പ്രവർത്തിപ്പിക്കേണ്ടതില്ല അത് victim പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനും ആ പ്രത്യേക process execute ചെയ്യാൻ എടുത്ത സമയത്തിന്റെ അളവ് കണക്കാക്കുന്നതിനും പ്രേരിപ്പിക്കുന്നു ഈ സമയത്തെ അടിസ്ഥാനമാക്കി ആക്രമണകാരിക്ക് ആ victim പ്രക്രിയയെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ അനുമാനിക്കാൻ കഴിയും നന്ദി